മറ്റൊരു ഉദാഹരണം നോർട്ടൺന്റെ സിദ്ധാന്തമനുസരിച്ച് RN IN നിർണ്ണയിക്കുക ഇത് ഞാൻ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് RThevenin അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ തെവെനിൻ പ്രതിരോധം കണ്ടു പിടിച്ച പോലെ തന്നെ നോർട്ടൺ ലഭിക്കുന്നതിനാൽ അവിടെ ഒരു മാറ്റവുമില്ല നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എളുപ്പമാക്കാൻ കഴിയും ഒന്നാമത്തെ കാര്യം നെറ്റ്വർക്കിൽ ഒരു ആശ്രിത സ്രോതസ്സുകൾ ഉള്ളപ്പോൾ അവയെ നിർത്തിവയ്ക്കാൻ കഴിയില്ല സ്വതന്ത്ര ഉറവിടങ്ങൾക്ക് മാത്രമേ അത് നിർത്താൻ കഴിയൂ ഉദാഹരണത്തിന് വേണമെങ്കിൽ ഈ സർക്യൂട്ടിൽ RN എന്ന RThevenin കണ്ടെത്താനാഗ്രഹിക്കുന്നു ആശ്രിത ഉറവിടം ഉണ്ട് ഒരു വോൾട്ടേജ് ഉറവിടം ഇത് ആണെന്ന് പറയുക ഒരു വോൾട്ടേജ് ഉറവിടം ബന്ധിപ്പിക്കുക V0 1 വോൾട്ട് പറയുക ആ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ഇത് ക്രമീകരിക്കണം കാരണം ആശ്രിത ഉറവിടങ്ങൾ ഓഫാക്കേണ്ടതുണ്ട് വോൾട്ടേജ് ഉറവിടത്തിന്റെ കാര്യത്തിൽ അത് ക്രമീകരിക്കുക അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ കറന്റ് i0 പോലെ കരുതുക ഈ വോൾട്ടേജ് സ്രോതസ്സിൽ നിന്ന് വരുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര ഈ സർക്യൂട്ടിലൂടെ ഒഴുകും പക്ഷേ ഇവിടെ ഒന്നും ഉണ്ടാകില്ല കാരണം ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് പാതയാണ് അതിനാൽ സ്വാഭാവികമായും കറന്റ് വരില്ല അതായത് iy 0 ആകും Iy 0 ആകുകയാണെങ്കിൽ ഈ ഭാഗം 2 iy ആണ് അതും 0 ആണ് കാരണം iy 0 അടിസ്ഥാനപരമായി i0 ഇവിടെ മാത്രമേ ഒഴുകുകയുള്ളൂ അതിനാൽ സർക്യൂട്ട് ൽ ഈ കറന്റ് i0 ആയിരിക്കും ഇത് പോലെ കാരണം ഇതും ഇതായിരിക്കില്ല ഈ പാത ഷോർട്ട് ചെയ്തതും ആയതിനാൽ കറന്റ് ഈ സ്ഥലമെടുക്കും ഇവിടെ കറന്റ് ഉണ്ടാകില്ല iy 0 കാരണം ഇത് സാധാരണയായി ഷോർട്ട് സർക്യൂട്ട് പാതയിലൂടെ ഒഴുകുന്നു അതിനാൽ ഇവിടെ ഒന്നും ഉണ്ടാകില്ല iy 0 എന്നത് അടിസ്ഥാനപരമായി സർക്യൂട്ട് ഈ ഭാഗം മാത്രമാണ് ഇതിനർത്ഥം അടിസ്ഥാനപരമായി 5 i V0 1 എന്നാൽ V0 i0 5 Ω എന്നു കാരണം ഏതുവിധേനയും V0 1 അതിനർത്ഥം വീണ്ടും എഴുതുന്നത് V 0 1 ആണെങ്കിലും വോൾട്ട് അത് പ്രശ്നമല്ല V0 i0 5Ω അതിനർത്ഥം RN എന്നത് RThevenin ആണ് 5Ω ഇത് RN ആണ് RN ലഭിക്കാൻ അതിനാൽ അത് ഉടനടി ക്രമീകരിക്കുക അവിടെ കറന്റ് ഇല്ലെങ്കിലും ഈ വഴി ഒരു വോൾട്ടേജ് സ്രോതസ്സ് ആശ്രിത സ്വതന്ത്ര ഉറവിടം ഇട്ടു എങ്കിൽ ഈ RN നേടാൻ ആകും കൂടാതെ IN ലഭിക്കുന്നതിന് അതായത് RN കറന്റ് IN riSC ഈ നോർട്ടൺ കറന്റ് ലഭിക്കാൻ പിന്നീട് സർക്യൂട്ട് വരയ്ക്കും ഇവിടെ V0 1 വോൾട്ട് ഇട്ടു യഥാർത്ഥത്തിൽ ഇവിടെ V0 1 വോൾട്ട് ഇടുന്നില്ലെങ്കിൽ 1 വോൾട്ട് 2 വോൾട്ട് 3 വോൾട്ട് ഏതാണേലും പ്രശ്നമല്ല അടിസ്ഥാനപരമായി V0 i0 നേടണം RN 5 Ω എങ്ങനെ ലഭിക്കും എന്ന് ഇത് പറഞ്ഞു ഇപ്പോൾ ആ ഷോർട്ട് സർക്യൂട്ട് കറന്റ് എന്താണെന്നു കണ്ടെത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ഉദാഹരണത്തിന് ഇതിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര i ആണ് അങ്ങനെ ഈ 8 Ω പ്രതിരോധം ഉടനീളം ഈ 20 വോൾട്ട് ഈ കേസിൽ iY 208 ആണ് 2 5 ആമ്പിയർ iy 2 5 ആമ്പിയർ ആണെങ്കിൽ ഇതാണ് ആ ആശ്രിത കറന്റ് ഉറവിടം 2 iy അതിനാൽ ഇത് 2 iy 2 2 5 ആണ് 5 ആമ്പിയർ ഇപ്പോൾ ചോദ്യം ഇതാണ് ഇവിടെ 5 ആമ്പിയർ കറന്റ് പ്രവേശിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ i മൂല്യം ലഭിക്കാൻ ഇതാണ് 5 ആമ്പിയർ അതിനർത്ഥം iSC IN ഞാൻ ഇവിടെ നിന്ന് എഴുതുകയാണെങ്കിൽ അത് അടിസ്ഥാനപരമായി i 5 ആയിരിക്കും i നേടണം ഇത് ലഭിക്കാൻ ഇവിടെ KVL ബാധകമാണ് ഇത് കേവലം 5 i ആണ് ഇത് കേവലം 5 i 20 0 ആണ് അതായത് i 4 ആമ്പിയർ iSC IN 4 5 9 ആമ്പിയർ കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കാവുന്നതാണെന്ന് ഞാൻ കരുതുന്നു ഇത് വ്യക്തമാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ 45 അതാണ് IN 9 ആമ്പിയർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ എഴുത്ത് എല്ലാം ഇവിടെയുണ്ട് നിങ്ങൾക്ക് സ്വന്തമായി കടന്നുപോകാൻ കഴിയും അങ്ങനെ RN5Ω എങ്ങനെ കണക്കുകൂട്ടണമെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ V0 1 വോൾട്ട് യഥാർത്ഥത്തിൽ V0 1 0 നേരിട്ട് 5 ലഭിക്കും 1 വോൾട്ട് 2 വോൾട്ട് എടുക്കുന്നതെന്തും അത് ആയി മാറും അതുപോലെ ഞാൻ പറഞ്ഞു ഇത് 8 Ω പ്രതിരോധത്തിലൂടെ 2 5 ആമ്പിയറിലൂടെ അവ കെസിഎൽ പ്രയോഗിക്കുകയും അത് എങ്ങനെ നേടാമെന്ന് കാണിക്കുകയും ചെയ്തു ഇത് 9 ആമ്പിയർ ആണ് അതിനാൽ iN i ഷോർട്ട് സർക്യൂട്ട് കറന്റ് 9 ആമ്പിയർ എല്ലാം മനസ്സിലാക്കാവുന്നതേയുള്ളൂ അടുത്തത്ചിത്രം 63 ൽ സർക്യൂട്ടിന്റെ 10 Ω റെസിസ്റ്ററിൽ കറന്റ് നിർണ്ണയിക്കുന്നു നോർട്ടന്റെ സിദ്ധാന്തം ഉപയോഗിച്ച് ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആദ്യം 10 Ω എടുക്കണം എന്നിട്ട് RN iSC IN ഷോർട്ട് സർക്യൂട്ട് കറന്റ് കണ്ടെത്തുന്നു ഈ ഷോർട്ട് സർക്യൂട്ട് കറന്റ് കണ്ടെത്തണം എന്നതാണ് ഈ iSC ഇവിടെയുണ്ട് അത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കുക ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് അതിനാൽ 10 Ω ഇപ്പോൾ പുറത്ത് ഇപ്പോൾ ഇത് 12 ആമ്പിയർ ആണ് അതിനാൽ ഈ ശാഖയിലൂടെ കറന്റു കണ്ടെത്തുക നമ്മളുടെ താൽപ്പര്യം 6 Ω പ്രതിരോധത്തിലൂടെ കറന്റു ആണ് കറന്റു വിഭജന രീതി ഉപയോഗിച്ച് കറന്റ് ഡിവിഷൻ രീതി ഉപയോഗിച്ച് i i ആയിരിക്കും ഇത് 6 Ω പ്രതിരോധത്തിലൂടെ കറന്റ് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു അതിനർത്ഥം 3 3 6 12 Ω 12 ആമ്പിയർ സ്വതന്ത്ര കറന്റ് ഉറവിടം ഉണ്ട് എന്നാണ് അതിനാൽ 12 ആമ്പിയർ ഇത് 4 ആമ്പിയർ ആയി മാറുന്നു ഇതിനർത്ഥം ഈ i കറന്റ് ഒഴുകുന്നത് 4 ആമ്പിയറാണ് ഇപ്പോൾ ഈ പാത ഷോർട്ട് ചെയ്തിരിക്കുന്നു അതായത് ഈ 9 Ω ൽ ഒന്നും ഒഴുകില്ല കാരണം ഈ 4 Ω 4 ആമ്പിയർ കറന്റ് ഈ പാത സ്വീകരിക്കും 9 Ω പ്രതിരോധത്തിൽ കറന്റ് ഉണ്ടാകില്ല കറന്റ് 0 ആണ് കാരണം ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് അതായത് iSC IN ആയിരിക്കും 4 ആമ്പിയർ ഈ ലളിതമായ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഷോർട്ട് സർക്യൂട്ട് ആയതിനാൽ 9 Ω പ്രതിരോധത്തിലൂടെ വൈദ്യുതപ്രവാഹം ഉണ്ടാകില്ല എല്ലാ കറന്റും ഈ ഷോർട്ട് സർക്യൂട്ട് പാതയിലൂടെ കടന്നുപോകും അതായത് ഈ 4 ആമ്പിയർ കറന്റ് ഈ ഷോർട്ട് സർക്യൂട്ട് പാതയിലൂടെ ഒഴുകും അതിനാൽ iSC IN 4 ആമ്പിയർ അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തത് ആ RN അല്ലെങ്കിൽ R ആ RN RThevenin ഒരേ കാര്യം അടുത്തത് ഈ കറന്റ് ഉറവിടം അത് സ്വതന്ത്ര കറന്റ് ഉറവിടമാണ് അതിനാൽ അത് ഓഫാക്കി പക്ഷേ ഇത് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും എന്നാണ് RN കണ്ടുപിടിക്കണം 1 നും 2 നും ഇടയിൽ ഇത് തുറന്നതാണെന്ന് പരിശോധിക്കുക 6 ഉം 3 ഉം അവർ ശ്രേണിയിലാണ് അതിനാൽ 9 ഉം 9 ഉം അവ സമാന്തരമാണ് അടിസ്ഥാനപരമായി RN 9 9 9 9 ആകും അതായത് അത് 4 5 Ω അത് RN അടിസ്ഥാനപരമായി 9 ബൈ 2 അങ്ങനെ അതിനർത്ഥം RN ലഭിച്ചു 4 ഇപ്പോൾ തത്തുല്യമായ സർക്യൂട്ട് നോക്കുക V Thevenin RThevenin ശ്രേണിയിൽ ആണെന്ന് ഇവിടെ IN 4 ആമ്പിയർ കിട്ടിയിരിക്കുന്നു RN ലഭിച്ചു ഇപ്പോൾ ഇത് 10 Ω ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽRN എന്താണെന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും കറന്റ് വിഭജനത്തിലൂടെ അതിൽ എഴുതിയിരിക്കുന്നത് 10Ω 10 അതായത് 10 Ω പ്രതിരോധത്തിലൂടെ കറന്റ് 4 ആമ്പിയർ എന്നാണ് കറന്റ് വിഭജന രീതി അതിനാൽ i 10 4 5 r കൊണ്ട് ഹരിക്കുന്നു കാരണം ഇവ സമാന്തരമായിട്ടാണ് അതിനാൽ 4 5 10 4 വരുന്നതെന്തും i10 ഈ സംഖ്യാ മൂല്യം ചുവടെ നൽകിയിരിക്കുന്നു അതായത് ഈ 10 Ω പ്രതിരോധത്തിലൂടെ ഉള്ള കറന്റ് ഞാൻ അത് വ്യക്തമാക്കുന്നു അതിനാൽ ഇത് r ആണ് ഇത് യഥാർത്ഥത്തിൽ 1 241 ആമ്പിയർ വരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ചിത്രം 66 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ നോർട്ടൺ തത്തുല്യമായ സർക്യൂട്ട് നേടുക 50 Ω പ്രതിരോധത്തിലെ കറന്റ് കണ്ടെത്തേണ്ടതുണ്ട് ആ ഷോർട്ട് സർക്യൂട്ട് കറന്റ് കണ്ടെത്തേണ്ടതുണ്ട് RN IN iSC കണ്ടെത്തേണ്ടതുണ്ട് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആദ്യം RN കണ്ടെത്തണം അതിനു ശേഷം iSC IN ആ കറന്റ് സ്രോതസ്സ് പിന്നെ RN പിന്നെ ഈ 50 Ω എല്ലാം അടിസ്ഥാനപരമായി സമാന്തരമായിരിക്കും ഈ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ലഭിക്കാൻ ഇത് ഷോർട്ട് ചെയ്തിരിക്കുന്നു ഈ രണ്ട് കറന്റ് സ്രോതസ്സ് ഓഫാക്കിയാൽ RN നേടുക എന്നതാണ് ചോദ്യം ഇത് തുറന്നിരിക്കുന്നു അതിനാൽ ഇവിടെ നോക്കിയാൽ ആ iSC ഷോർട്ട് ചെയ്തിരിക്കുന്നു അതേ സമയം ഈ 2 ആമ്പിയർലേക്ക് നോക്കുക ഈ 2 ആമ്പിയർ അത് മുകളിലാണ് ഈ 1 ആമ്പിയർ അതും മുകളിലേക്ക് അതിനാൽ അവയുടെ ഫലം പറയുക 1 2 3 ആമ്പിയർ ആണ് ഇത് ഈ ദിശ മുകളിലേക്ക് നൽകിയിരിക്കുന്നുവെന്ന് കാണിക്കുന്നു ഇത് ക്രമീകരിച്ചിരിക്കുന്നു ഈ 3 ആമ്പിയർ ഉണ്ട് അടിസ്ഥാനപരമായി ഈ സർക്യൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ഈ രണ്ട് കാര്യങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് ക്രമീകരിച്ചിരിക്കുന്നു ഈ 100 Ω 100 Ω എന്നിവ യഥാർത്ഥത്തിൽ സമാന്തരമാണ് ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് കറന്റ് എന്തായിരിക്കും അതാണ് iSC ഇപ്പോൾ ഇവിടെ പോകുക അതിനാൽ രണ്ട് 100 Ω റെസിസ്റ്ററുകളും ഷോർട്ട് സർക്യൂട്ടാണ് iSC IN 1 2 3 ആമ്പിയർ അത് തുറന്നയുടൻ അത് സമാന്തരമാണ് ഈ പാത ക്രമീകരിച്ചതിനാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ 1 ആമ്പിയർ കറന്റ് ഇതുപോലെ ഒഴുകും ഈ വൈദ്യുതധാര ഈ 1 ആമ്പിയറിലൂടെ ഒഴുകില്ല കാരണം ഈ 100 Ω പ്രതിരോധത്തിലൂടെ ക്ഷമിക്കണം കാരണം ഇത് ക്രമീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ 2 ആമ്പിയർ വൈദ്യുതധാരയും ഇതിലൂടെ ഒഴുകും കാരണം ഇവ രണ്ടും ഫലപ്രദമല്ല കാരണം ഇത് ക്രമീകരിച്ചിരിക്കുന്നു അതിനർത്ഥം iSC 1 2 3 ആമ്പിയർ 2 1 തുടക്കത്തിൽ 3 രണ്ടും മുകളിലേക്ക് ഒടുവിൽ ഈ 1 ആമ്പിയർ കറന്റ് ഇവിടെ ഒഴുകുന്നു 2 ആമ്പിയർ കറന്റ് ഇവിടെ ഒഴുകുന്നു ഇത് ഷോർട്ട് ചെയ്തിരിക്കുന്നു ഈ 1 2 ഷോർട്ട് ചെയ്തിരിക്കുന്നു 100 Ω പ്രതിരോധത്തിലൂടെ കറന്റും ഉണ്ടാകില്ല അതിനാൽ 2 ആമ്പിയറു ഷോർട്ട് സർക്യൂട്ട് പാത്ത് എടുക്കുന്നു ഇത് 3 ആമ്പിയർ ആയിരിക്കും അതായത് എന്റെ iSC IN 3 ആമ്പിയർ കൂടാതെ അത് സമാന്തരമായിരിക്കുമ്പോൾ ഒന്നിനും രണ്ടിനും ഇടയിൽ എപ്പോൾ നോർട്ടോൺ ശ്രമിക്കും കാരണം ആ സമയത്ത് ഇത് തുറന്നിരിക്കുന്നു ഇതും തുറന്നിരിക്കുന്നു ഇതും 1 നും 2 നും ഇടയിൽ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ആ സമയത്ത് 100 ഉം 100 Ω ഉം സമാന്തരമായി അത് തുറക്കുമ്പോൾ അതിനാൽ 100 അങ്ങനെ RN 50 Ω ഒടുവിൽ ഈ സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനാൽ IN 3 ആമ്പിയർ RN 50 Ω ഇത് കൂടാതെ ആ 50 Ω പ്രതിരോധത്തിലൂടെ കറന്റ് കണ്ടെത്താനും ആഗ്രഹിക്കുന്നു ഇത് 50 ആണ് ഇത് 3 ആമ്പിയറാണ് അടിസ്ഥാനപരമായി ഇത് i 50 Ω തുല്യമായ കറന്റ് വിഭജനമാണ് ഇത് 1 5 ആമ്പിയർ ആയിരിക്കും എല്ലാ കാര്യങ്ങളും സമാന്തരമാണെന്ന് നോർട്ടണിൽ അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ് ഈ പ്രതിരോധം 50 Ω ഇത് തുല്യമായ നോർട്ടൺ ആണ് ഇതാണ് തെവെനിൻ V Thevenin R Thevenin R L എന്നിവ ശ്രേണിയിൽ ആയിരിക്കും അത് R L 50 Ω എന്ന് പറഞ്ഞാൽ എല്ലാം സമാന്തരമാണെന്ന് പറയുക അത് 50 50 ആണ് അതിനാൽ കറന്റ് പകുതിയായിരിക്കും അതിനാൽ ഈ 50 Ω പ്രതിരോധത്തിലൂടെ അത് 1 5 ആമ്പിയർ ആയിരിക്കും അതിനാൽ അടുത്തത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ നോർട്ടൺ തുല്യമായ സർക്യൂട്ട് നേടുക ഇവിടെ നോർട്ടൺ തത്തുല്യമായ സർക്യൂട്ട് ലഭിക്കേണ്ടതുണ്ട് ഇത് 30 വോൾട്ട് സ്രോതസ്സാണ് സ്വതന്ത്ര ഉറവിടം 110 ആമ്പിയർ കറന്റ് ഉറവിടം ഉണ്ട് ഷോർട്ട് സർക്യൂട്ട് കറന്റ് കണ്ടെത്തണം മറ്റൊന്ന് 1 2 ലെ നോർട്ടൺ തുല്യമായ പ്രതിരോധം കണ്ടെത്തണം അതിനാൽ ഇവിടെ ഇത് ലഭിക്കാൻ RN കണ്ടെത്തേണ്ടതുണ്ട് ആ സാഹചര്യത്തിൽ ഈ ഉറവിടം ഷോർട്ട് സർക്യൂട്ട് ഓഫ് ചെയ്യണം ഈ കറന്റ് ഉറവിടം തുറന്നിരിക്കണം അത് അവിടെ പാടില്ല എന്താണ് സംഭവിക്കുക ഇതിനർത്ഥം ഈ 1 Ω ഉം 5 Ω ഉം അത് പരമ്പരയിലായിരിക്കും അതിനാൽ ഇത് 6 Ω ആയിരിക്കും ഇത് 3 ആയിരിക്കും അതിനാൽ 6 Ω ഉം 3 Ω ഉം സമാന്തരമാണ് അതിനാൽ ഇത് ഷോർട്ട് സർക്യൂട്ട് കറന്റ് എന്ന് വിളിക്കപ്പെടും RN ന് 2 ലഭിക്കും RN r ആകും ആദ്യം ഞാൻ ആ RN 2 Ω ലേക്ക് വരുന്നു ഇത് RN കാരണം ഈ തത്തുല്യമായ സർക്യൂട്ടിൽ നിന്ന് അത് എളുപ്പത്തിൽ ലഭിക്കും അതായത് ഇത് തുറന്നതാണോ ഈ 30 വോൾട്ട് ഉറവിടം ഷോർട്ട് ചെയ്തിരിക്കുന്നു അതിനാൽ 1 5 6 6 ഉം 3 ഉം സമാന്തരമാണ് 6 3 6 3 അങ്ങനെ 18 9 വരെ 2 Ω ഇപ്പോൾ അത് ക്രമീകരിക്കപ്പെടുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് കറന്റ് എന്താണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ ചോദ്യം അത് ക്രമീകരിക്കപ്പെട്ടയുടനെ സർക്യൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പാത ക്രമീകരിച്ചിരിക്കുന്നത് പോലെ ഈ പാത ക്രമീകരിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നത് 5 Ω ഉം 1 Ω ഉം സമാന്തരമായി കാണും ഈ ടെർമിനൽ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവരിക എന്നാണ് കാരണം ഇതെല്ലാം സാധാരണമാണ് 5 Ω 1 Ω എന്നിവ സമാന്തരമായി വിളിക്കുന്നതിന്റെ അർത്ഥം ഈ 5 Ω പ്രതിരോധത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര എന്താണ് എന്നാണ് അതിനാൽ ഈ കറന്റ് i ആണെന്ന് കരുതുകയാണെങ്കിൽ ഇത് 10 ആമ്പിയർ കറന്റ് ഉറവിടമാണ് ഈ കറന്റ് 1 Ω 5 Ω എന്നിങ്ങനെ വിഭജിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ 5 Ω പ്രതിരോധത്തിലൂടെ കറന്റ് എന്താണ് കറന്റ് വിഭജനത്തിലൂടെ 5 ഉം 1 ഉം സമാന്തരമായിരിക്കുന്നതിനാൽ കറന്റ് ഡിവിഷൻ രീതി 1 1 5 10 ആമ്പിയർ അതിനാൽ അടിസ്ഥാനപരമായി ഇത് 10 ബൈ 6 ആമ്പിയർ ആയിരിക്കും 5 മുതൽ 3 ആമ്പിയർ വരെയാണ് ഇതിലൂടെ ഒഴുകുന്നത് മറ്റൊരു കാര്യം ആ ഷോർട്ട് സർക്യൂട്ട് കറന്റ് കണ്ടുപിടിക്കേണ്ടതാണ് കാരണം ഇത് ഷോർട്ട് സർക്യൂട്ട് കറന്റ് നോർട്ടൺ കറന്റ് ആണ് അതിനാൽ ഈ ടെർമിനൽ ഷോർട്ട് ചെയ്തയുടനെ എന്താണ് ഈ വൈദ്യുതധാര കരുതുക ഈ കറന്റ് i0 കണ്ടെത്തേണ്ടതുണ്ട് തുടർന്ന് iSC അടിസ്ഥാനപരമായി i0 i ആയിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ i0 കറന്റ് ലഭിക്കാൻ ഏറ്റവും ലളിതമായ മാർഗം ഇതാണ് ഇത് 0 പൊട്ടൻഷ്യൽ ആണെങ്കിലും എളുപ്പമുള്ള കണക്കുകൂട്ടലിനായി KVL ഇതുപോലെയാക്കും ആ സാഹചര്യത്തിൽ അത് 3 i0 30 ആയി മാറും കാരണം ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ 30 3 i0 0 അതായത് i0 10 ആമ്പിയർ ഇവിടെ i 5 3 IN iSC 353 ആമ്പിയർ ലഭിച്ചു ഷോർട്ട് സർക്യൂട്ട് കറന്റ് അല്ലെങ്കിൽ IN അങ്ങനെയാണെങ്കിൽ ഈ 35 ബൈ 3 നോക്കൂ അതിനാൽ ഷോർട്ട് സർക്യൂട്ട് കറന്റിന് 35 ബൈ 3 ആമ്പിയർ ലഭിച്ചു കൂടാതെRN നും R Norton ന് 2 Ω ലഭിച്ചു ഇതിനർത്ഥം നോർട്ടൺ തത്തുല്യമായ സർക്യൂട്ട് ഇതാണ് അതിനാൽ ഇത് മറ്റൊരു ഉദാഹരണമാണെന്ന് ഇപ്പോൾ RN നിർണ്ണയിക്കുക RN ഉപയോഗിച്ച് ചിത്രം 72 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ ഷോർട്ട് സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ഈ സാഹചര്യത്തിൽ ഇത് V oc ആണ് ഇത് തുറന്നിരിക്കുന്നു ഇത് V oc ടെർമിനൽ 1 2 ആണ് അതിനർത്ഥം ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഇത് 0 ആണ് കാരണം അത് തുറന്നിരിക്കുന്നു ഇതിലൂടെ കറന്റ് ഒഴുകുന്നില്ല ഒരു ആശ്രിത ഉറവിടവും അവിടെയുണ്ട് ആ പരിഹാരത്തിലേക്ക് പോകുന്നതിനുമുമ്പ് നോക്കുക അതിനാൽ ഇത് V oc കണ്ടെത്തേണ്ടതുണ്ട് പക്ഷേ അത് തുറന്നിരിക്കുന്നതിനാൽ ഈ iSC 0 എങ്കിൽ iSC 0 ഈ ഭാഗം അത് എങ്കിൽ 4 0 ഈ കറന്റ് സ്രോതസ്സ് അതിനാൽ വൈദ്യുതധാര ഇവിടെയില്ല ഇവിടെയും 0 കറന്റ് പോകുന്നു കാരണം iSC ഇവിടെ 0 ആണ് അത് ആശ്രിത സ്രോതസ്സാണ് ഇത് 0 അതിനാൽ ഈ 5 ആമ്പിയർ സ്വതന്ത്ര കറന്റ് ഉറവിടം എന്താണ് സംഭവിക്കുന്നത് ഈ കറന്റ് യഥാർത്ഥത്തിൽ ഇതുപോലെ പ്രചരിക്കും ഇതാണ് 5 ആമ്പിയർ കറന്റ് 5 ആമ്പിയർ ഇതുപോലെ പ്രചരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നോഡൽ വിശകലനത്തിൽ നിന്നാണ് ഇതാണ് എന്റെ റഫറൻസ് പോയിന്റ് എന്റെ v 1 5 3 15 വോൾട്ട് ആണ് ഇത് യഥാർത്ഥത്തിൽ സാധാരണ ടെർമിനൽ ആയതിനാൽ ഇവിടെ 15 ആണെങ്കിൽ ഇവിടെയും 15 ആണ് അതിനാൽ ഇത് ആദ്യം ആ v 1 ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുമ്പോൾ ലഭിക്കും v 1 15 ആണെങ്കിൽ ഈ വോൾട്ടേജ് യഥാർത്ഥത്തിൽ v 1 എന്നാണ് കൂടാതെ v 1 15 വോൾട്ട് ഇത് ഇത് ഇപ്പോൾ V oc എന്താണെന്ന് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമ്പ് എന്നാൽ അത് അമ്പടയാളമല്ല ഞാൻ അത് അതേപടി നിലനിർത്തുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞു ഇപ്പോൾ ആ KV L ഇവിടെ പ്രയോഗിക്കുക iSC 0 ഇത് 4 ആയിരിക്കും ഓപ്പൺ സർക്യൂട്ട് അതിനാൽ 4 ൽ 0 ആയി എഴുതേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ് ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും 12 ആദ്യം വരുന്നു തുടർന്ന് V oc ഇവിടെ rv 1 v 1 0 ആണ് കൂടാതെ V 1 15 വോൾട്ട് അതായത് ഇവിടെ v 1 15 ഇട്ടാൽ V oc 15 12 ആയിരിക്കും അതായത് 3 വോൾട്ട് അതായത് ഓപ്പൺ സർക്യൂട്ട് V oc വോൾട്ടേജിന് 3 വോൾട്ട് ലഭിച്ചു അതിനർത്ഥം എന്റെ V oc 3 വോൾട്ട് iSC ഇപ്പോൾ ലഭിക്കേണ്ടതുണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ iSC ലഭിക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ടിലേക്ക് പോകേണ്ടതുണ്ട് അതിനാൽ Vo c 3 വോൾട്ട് ലഭിച്ചു ഞാൻ എല്ലാം വിശദീകരിച്ചു ഇപ്പോൾ I oc ലഭിക്കാൻ ഇത് ക്രമീകരിച്ചിരിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഈ 1 ഉം 2 ഉം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നു കാരണം I o c ലഭിക്കണം അതിനാൽ ക്രമീകരിച്ചിരിക്കുന്നത് 1 വോൾട്ടേജ് ഉറവിടം 12 വോൾട്ട് 5 ആമ്പിയർ ആണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുമ്പോൾ കാര്യങ്ങൾ മാറി ഈ വോൾട്ടേജ് ഇപ്പോൾ v 2 എന്ന് പറയുന്നു ഇപ്പോൾ ഈ വോൾട്ടേജ് റഫറൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ വോൾട്ടേജ് v 2 ആണ് ഇപ്പോൾ ചോദ്യം ഇതാണ്iSC ആദ്യം കണ്ടെത്തേണ്ടത് ഇത് ഒരു സാധാരണ ടെർമിനലാണ് അതിനാൽ ഈ വോൾട്ടേജ്v 2 ആണ് അതിനാൽ മുമ്പത്തെപ്പോലെ നിരവധി തവണ ഇത് ചെയ്തു അതിനാൽ ഈ മെഷിൽ കെവിഎൽ പ്രയോഗിക്കുക അതിനാൽ 4 4 iSC ലഭിക്കും ഈ v 2 v 2 12 0 അതിനർത്ഥം iSC 12 v 2 4 അത് ഇവിടെ എഴുതിയിരിക്കുന്നു മറ്റൊരു കാര്യം ഇതാണ് i ഇവിടെത്തന്നെ എഴുതുന്നു കാരണം ഇവിടെ വോൾട്ടേജ് v 2 അതിനാൽ താഴേക്ക് നീങ്ങുന്നു v 2 3 ഇപ്പോൾ ഇത് ഒരു സാധാരണ നോഡ് ആയതിനാൽ ഇവിടെ KCL പ്രയോഗിക്കുക ഇവിടെ കെസിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇത് എന്റെ ഈ നോഡ് ആണെന്ന് കരുതുക ഈ കറന്റ് വരുന്നു അതിനാൽiSC എടുത്തു ഈ ദിശയിൽ കറന്റ് ഇവിടെ പ്രവേശിക്കുന്നത് ഇതാണ് iSC 5 ആമ്പിയറും ഇവിടെ പ്രവേശിക്കുന്നു ഇത് 5 ആണ് അടുത്ത 4 iSC ഈ ടെർമിനലിൽ നിന്ന് പുറപ്പെടുന്നു 4 ഈ നോഡ് 4 iSC പുറത്തേക്കു പോകുന്നു കൂടാതെ i v 3 ഇത് i അതിനർത്ഥം iSC 5 ഇൻകമിംഗ് കറന്റ് 4 iSC i ഇത് ഞാൻ അർത്ഥമാക്കുന്നത് ഈ v 2 3 എന്നാണ് അതിനാൽ ഇവിടെ ഇത് 4 12 v 2 ന് 4 അത് 12 v 2 ആയിത്തീരും ഇത് i v 2 3 ആയിരിക്കണം അതിനാൽ എല്ലാ സമവാക്യവും v 2 അടിസ്ഥാനത്തിൽ എളുപ്പത്തിൽ ലഭിക്കും v 2 ന്റെ മൂല്യം എന്താണ് അപ്പോൾ മാത്രമേ ഞാൻ കണക്കാക്കുകയുള്ളൂ അതിനാൽ iSCഅത് വ്യക്തമാക്കുന്നു അതിനാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു 12 v 2 5 v 2 3 i 4 iSC എന്ന് നോഡൽ വിശകലനം വഴി അതിനാൽ iSC 12 v 2 4 4 റദ്ദാക്കപ്പെടും v 2 ന് പരിഹാരം v 2 9 6 വോൾട്ട് ആയിരിക്കും iSC ഈ പദപ്രയോഗം 12 v 2 ബൈ 4 കണ്ടു ഇത് 0 6 ആമ്പിയർ ആണ് നോർട്ടൺ പ്രതിരോധം RN V oc iSC V oc 3 വോൾട്ട് നേടി ഇത് iSC ആണ് ഇത് 5 ആണ് അങ്ങനെ കിട്ടി ഇതാണ് യഥാർത്ഥത്തിൽ iSC IN